എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസ് ആൻഡ് പേഴ്സണാലിറ്റി കോഴ്സ് വികസിപ്പിക്കുന്നതിലേക്ക് വീണ്ടും സ്വാഗതം ഇത് എൻപിടിഇഎൽ മൂക്ക് മോഡ് ഉപയോഗിച്ച് ഐഐടി കാൺപൂരിൽ നിന്നുള്ളതാണ് നമ്മൾ ആറാം ആഴ്ചയിലെ അവസാന മൊഡ്യൂളിലാണ് ഇത് 36 ാം നമ്പർ പ്രഭാഷണമായ ഈ മൊഡ്യൂളിന്റെ അവസാന പ്രഭാഷണമാണ് ഈ ആഴ്ച മുഴുവൻ പൊതുവായി ആശയവിനിമയ വൈദഗ്ധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിച്ചത് മുമ്പത്തെ പ്രഭാഷണത്തിൽ നിന്ന് ആരംഭിക്കുന്ന സമാപനത്തിലേക്ക് നിങ്ങൾക്ക് മുൻകൂട്ടി ചിന്തിക്കുന്ന മൂല്യനിർണ്ണയ പ്രവർത്തനം നൽകിക്കൊണ്ട് വാക്കേതര ആശയവിനിമയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലവിലുള്ള അറിവ് ഞാൻ പരിശോധിക്കാൻ തുടങ്ങി മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ ആദ്യത്തേത് ചെയ്തു അടുത്തത് ഇതിൽ ചെയ്യും എന്നാൽ ആദ്യത്തേതിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത് ആദ്യത്തേതിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം നിങ്ങളുടെ വാക്കേതര ആശയവിനിമയം പരിശോധിക്കുന്നതിനായി ഞാൻ നിങ്ങൾക്ക് ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന രൂപത്തിൽ ഒരു പരിശോധന നൽകാൻ ശ്രമിച്ചു ശരീരഭാഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലവിലുള്ള അറിവ് പരിശോധിക്കുന്നതിനും വാക്കേതര ആശയവിനിമയത്തെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ ശരീരഭാഷയെക്കുറിച്ചുള്ള അറിവും വാക്കേതര ആശയവിനിമയത്തെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളും ഇല്ലാതാക്കുക അതിനാൽ ഞാൻ സത്യമോ തെറ്റോ ആയ പ്രസ്താവനകൾ സംയോജിപ്പിക്കുന്നു പക്ഷേ ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ദ്രുത അവലോകനത്തിനായി നമുക്ക് ആദ്യം യഥാർത്ഥ പ്രസ്താവനകൾ നോക്കാം തുടർന്ന് തെറ്റായ പ്രസ്താവനകൾ നോക്കാം പ്രീ തിങ്കിംഗ് മൂല്യനിർണ്ണയത്തിൽ 11 യഥാർത്ഥ പ്രസ്താവനകളും 4 തെറ്റായ പ്രസ്താവനകളും ഉണ്ടായിരുന്നു നിങ്ങളുടെ സൌകര്യാർത്ഥം ഞാൻ 11 പ്രസ്താവനകളും ആദ്യം സത്യത്തിനും പിന്നീട് തെറ്റായ പ്രസ്താവനകൾക്കും കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവയിൽ 4 എണ്ണം തെറ്റാണ് അതിനാൽ നമുക്ക് അവ വളരെ വേഗത്തിൽ നോക്കാം യഥാർത്ഥ പ്രസ്താവനകൾ 1 സ്ത്രീകൾക്ക് പുരുഷന്മാരേക്കാൾ ശരീരഭാഷയോട് സ്വാഭാവിക സംവേദനക്ഷമതയുണ്ട് 2 സത്യസന്ധനല്ലാത്ത ഒരാൾ കണ്ണിൻറെ സമ്പർക്കം ഒഴിവാക്കുന്നു 3 ഒരു വ്യക്തി കൂടുതൽ സ്ഥലം കൈവശപ്പെടുത്തുമ്പോൾ അവൻ കൂടുതൽ അധികാരം ആസ്വദിക്കുന്നു 4 ഒരാൾ ഒരു മേശപ്പുറത്ത് കാലുകൾ വെച്ച് കൈകൾ തലയ്ക്ക് പിന്നിൽ പിടിച്ച് പ്രത്യേകിച്ച് മറ്റൊരാളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ആക്രമണോത്സുകതയുടെ ചുവടുകൾ കാണിക്കുന്നു 5 കൈകാലുകൾ അല്ലെങ്കിൽ കണങ്കാലുകൾ മുറിച്ചുകടക്കുന്നത് ഒരു പ്രതിരോധ ആംഗ്യമാണ് വിരലുകളും കൈകളും ഉപയോഗിച്ച് 6 സ്റ്റിപ്പിംഗ് ആത്മവിശ്വാസം കാണിക്കുന്നു 7 പ്രത്യേകിച്ച് ഒരു അഭിമുഖത്തിനോ അത്തരം പ്രവർത്തനങ്ങൾക്കോ മുമ്പ് സിഗരറ്റ് വലിക്കുന്നത് ഉത്കണ്ഠയുടെയോ പരിഭ്രാന്തിയുടെയോ അടയാളമായി കണക്കാക്കപ്പെടുന്നു 8 നിങ്ങളുടെ തള്ളവിരലുകൾ ഉയർത്തുന്നത് വിജയകരമായി പൂർത്തിയാക്കിയ ജോലിയെയോ വിജയത്തെയോ സൂചിപ്പിക്കുന്നു 9 കുഞ്ഞുങ്ങൾ മുതിർന്നവരേക്കാൾ ശരീരഭാഷയോട് കൂടുതൽ സെൻസിറ്റീവ് ആണ് 10 സ്വമേധയാ ഉള്ള ശരീരഭാഷ ഒരു വ്യക്തിയുടെ ആന്തരിക ചിന്തയോ വികാരങ്ങളോ വെളിപ്പെടുത്തുന്നു 11 കൂടുതൽ സംവേദനക്ഷമതയുള്ളവരാണ് 10 സ്വമേധയാ ഉള്ള ശരീരഭാഷ ഒരു വ്യക്തിയുടെ ആന്തരിക ചിന്തകളോ വികാരങ്ങളോ വെളിപ്പെടുത്തുന്നു 11 പേർ വ്യക്തിയുടെ ആന്തരിക ചിന്തകളോ വികാരങ്ങളോ വെളിപ്പെടുത്തുന്നു 11 പേർ ഇപ്പോൾ എണ്ണത്തിൽ 4 ആയിരുന്ന തെറ്റായ പ്രസ്താവനകൾ നിങ്ങൾ ഇടപഴകുന്ന മറ്റൊരാളേക്കാൾ താഴെ ഇരിക്കുന്ന ആദ്യത്തേത് ആധിപത്യമോ അധികാരമോ തെറ്റാണെന്ന് സൂചിപ്പിക്കുന്നു രണ്ടാമത് നിങ്ങളുടെ കൈപ്പത്തിയിൽ കൈ വയ്ക്കുന്നത് വിഷയത്തോടുള്ള താൽപ്പര്യവും തെറ്റാണെന്ന് സൂചിപ്പിക്കുന്നു കാരണം ഇത് വിരസതയെ സൂചിപ്പിക്കുന്നു മൂന്നാമത്തേത് നോൺ വെർബൽ ആശയവിനിമയം വാക്കാലുള്ള ആശയവിനിമയത്തേക്കാൾ തീവ്രവും ഫലപ്രദവുമല്ല അത് കൂടുതൽ തീവ്രമാണ് 4 നമ്മൾ ആരോടെങ്കിലും വാക്കാലുള്ള സംസാരം നിർത്തുമ്പോൾ നമ്മൾ മുഴുവൻ ആശയവിനിമയവും തെറ്റായി നിർത്തുന്നു കാരണം നമ്മൾ വാക്കാലുള്ള ആശയവിനിമയം നിർത്തുന്ന നിമിഷം തന്നെ വാക്കാലുള്ള ആശയവിനിമയം ആരംഭിക്കുന്നു വാസ്തവത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും വാക്കാലുള്ളതും അല്ലാത്തതുമായ ആശയവിനിമയം നടത്തുന്നു നമുക്ക് ഈ പ്രഭാഷണത്തിലെ രണ്ടാമത്തെ പ്രീ തിങ്കിംഗ് മൂല്യനിർണ്ണയത്തിലേക്ക് പോകാം ലക്ഷ്യം മുമ്പത്തേതിന് സമാനമാണ് അത് ശരീരഭാഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലവിലുള്ള അറിവ് പരിശോധിക്കുകയും നോൺ വെർബൽ ആശയവിനിമയത്തെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ് വീണ്ടും വളരെ ലളിതമായ ഒരു ശരി അല്ലെങ്കിൽ തെറ്റ് രീതി നിങ്ങളുടെ നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഒരു കഷണം പേപ്പർ എടുക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്തും നിങ്ങളുടെ പേനയോ പെൻസിലോ എടുക്കുക തുടർന്ന് നിങ്ങൾ ഇത്തവണ പത്ത് ചോദ്യങ്ങൾ എഴുതി ശരിയോ തെറ്റോ എന്ന് പറയണം വീണ്ടും ഞാൻ ചോദ്യങ്ങൾ ആവർത്തിക്കും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ലഭിച്ച സമയമാണിത് അത് താൽക്കാലികമായി നിർത്തുക തിരിച്ചുപോകുന്നത് ഒഴിവാക്കുക തുടർന്ന് ശ്രദ്ധാപൂർവ്വം കേൾക്കുക ഞാൻ അത് ആവർത്തിക്കാൻ പോകുന്നു ശരിയോ തെറ്റോ എഴുതാൻ സമയം ഉപയോഗിക്കുന്നു സ്വാഭാവികമായി പ്രതികരിക്കേണ്ടത് പ്രധാനമാണ് അതിനാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ യഥാർത്ഥ അന്തർലീനമായ അറിവ് എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും വിലയിരുത്താൻ കഴിയും അത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അത് പഴയപടിയാക്കാം അതിനാൽ സത്യമോ തെറ്റോ ആയ നിശബ്ദത ആധിപത്യത്തിന്റെ ശക്തമായ മാർഗമായി ഉപയോഗിക്കാമെന്ന് ആദ്യം പറയുന്നവർ വളരെ സ്വമേധയാ പ്രവർത്തിക്കുമെന്ന് കരുതരുത് നിശ്ശബ്ദതയെ ആധിപത്യത്തിന്റെ ശക്തമായ മാർഗമായി നമുക്ക് ശരിക്കും ഉപയോഗിക്കാമോ എന്നതാണ് ചോദ്യം അതിനാൽ ശരിയോ തെറ്റോ എന്ന് പറയട്ടെ അടുത്ത ഒരു സെക്കൻഡിലേക്ക് ഞാൻ പോകട്ടെ ഒരു നോൺ വെർബൽ ആശയവിനിമയത്തിന് വാക്കാലുള്ള അർത്ഥം നോൺ വെർബൽ ആശയവിനിമയത്തെ എതിർക്കാൻ കഴിയും അതായത് നമ്മുടെ ശരീരഭാഷയ്ക്ക് വാക്കാലുള്ള അർത്ഥത്തെ എതിർക്കാൻ കഴിയും അതായത് നിങ്ങൾ എന്തെങ്കിലും പറയുക എന്നാൽ നിങ്ങളുടെ ശരീരഭാഷയ്ക്ക് അത് പ്രവർത്തിക്കുന്ന രീതിയിൽ അത് പെരുമാറുന്ന രീതിയിൽ മറ്റെന്തെങ്കിലും അർത്ഥമാക്കാമോ അതിനാൽ ചോദ്യം നമ്പർ രണ്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വാക്കാലുള്ള അർത്ഥത്തിന് വിരുദ്ധമാണ് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്ന ഉത്തരം നിങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്പർ മൂന്ന് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വാക്കേതര ആശയവിനിമയം വാക്കാലുള്ള ആശയവിനിമയത്തിന് പകരമായി ഉപയോഗിക്കാം അതായത് വാക്കുകൾ ഉപയോഗിക്കുന്നതിനുപകരം നിങ്ങൾക്ക് വാക്കേതര ആശയവിനിമയം ഉപയോഗിക്കാം അതിനാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക ശരിയോ തെറ്റോ എന്ന് പറയുക ഞാൻ അടുത്തതിലേക്ക് പോകുന്നു ചില നോൺ വെർബൽ അടയാളങ്ങൾ സാർവത്രികവും സാധാരണയായി സ്വീകാര്യവുമാണ് ചില നോൺ വെർബൽ അടയാളങ്ങൾ സാർവത്രികവും സാധാരണയായി സ്വീകാര്യമായ അഞ്ചാമത്തെ ആംഗ്യങ്ങളാണ് അവയുടെ സാംസ്കാരിക പശ്ചാത്തലമനുസരിച്ച് സമാനമായ വാക്കാലുള്ള അർത്ഥം വാക്കാലല്ലാത്ത രീതിയിൽ വ്യത്യാസപ്പെടുമെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ വാക്കാലുള്ള ആശയവിനിമയത്തിൽ നിങ്ങളുടെ കൈയും ശരീരത്തിന്റെ ഭാഗവും ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്നതെന്തും ആംഗ്യങ്ങൾ ഇത് ഒരേ കാര്യം അർത്ഥമാക്കാം പക്ഷേ അത് അവരുടെ സാംസ്കാരിക പശ്ചാത്തലങ്ങൾക്കനുസരിച്ച് വാക്കാലുള്ളതല്ലാത്ത രീതിയിൽ വ്യത്യാസപ്പെടാം അതായത് സത്യം അല്ലെങ്കിൽ തെറ്റ് എന്ന് പറയുന്ന പ്രസ്താവന അടുത്ത ആറാമത്തെ ഒന്നിലേക്ക് ഞാൻ പോകട്ടെ നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ ഏറ്റവും ശക്തമായ ചാനലാണ് മുഖം അതിനാൽ നമുക്ക് ധാരാളം ചാനലുകൾ ഉണ്ട് മുഖം കൈകൾ ശരീരം മുഴുവൻ കാലുകൾ വിരലുകൾ ഇരിക്കുന്ന രീതിയിൽ നമ്മുടെ ഭാവം എന്നാൽ മൊത്തത്തിൽ ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് പറയുമ്പോൾ വാക്കേതര ആശയവിനിമയത്തിന്റെ ഏറ്റവും ശക്തമായ ചാനലാണ് മുഖം എന്ന് പറയപ്പെടുന്നു അടുത്ത ഏഴാമത്തേതിലേക്ക് ഞാൻ പോകട്ടെ നമ്മൾ ഇഷ്ടപ്പെടാത്ത വ്യക്തികളിൽ നിന്ന് അകന്നുപോകുന്നു അതിനർത്ഥം ശരിയോ തെറ്റോ എന്ന് പറയുന്ന ശരീരഭാഷയുടെ കാര്യത്തിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത വ്യക്തികളിൽ നിന്ന് അകന്നുപോകാൻ ശ്രമിക്കുന്നു എന്നാണ് അടുത്ത നെഗറ്റീവ് നോൺ വെർബൽ സിഗ്നലുകൾ പോസിറ്റീവ് സിഗ്നലുകളേക്കാൾ കൂടുതൽ ശ്രദ്ധേയമാണ് അതിനാൽ വിഷാദം നെഗറ്റീവ് നോൺ വെർബൽ സിഗ്നലുകൾ പോലുള്ള സന്തോഷം നെഗറ്റീവ് പോലുള്ള പോസിറ്റീവ് സിഗ്നലുകൾ ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധേയമാണ് ഒൻപതാം നിങ്ങളുടെ ശരീരഭാഷയെക്കുറിച്ചുള്ള അവബോധം അത് നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും അതിനാൽ നിങ്ങളുടെ ശരീരഭാഷ അറിയുന്നത് അത് ശരിയോ തെറ്റോ എന്ന് നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും എന്നാണ് ഇതിനർത്ഥം അവസാനത്തേത് പത്താമത്തേത് ദീർഘകാലത്തേക്ക് വ്യാജ ശരീരഭാഷ ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാണ് അതിനാൽ വ്യാജമായത് വഞ്ചിക്കലാണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ മറയ്ക്കാൻ നിങ്ങളുടെ ശരീരഭാഷ ഉപയോഗിക്കാം അതിനാൽ ചോദ്യം ചോദിക്കുകയോ അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് വ്യാജ ശരീരഭാഷ ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറയുകയോ ചെയ്യുന്നു ഞാൻ ഇപ്പോൾ ഉത്തരങ്ങളിലേക്ക് പോകട്ടെ ശരിയായ ഉത്തരങ്ങൾക്ക് ഓരോ മാർക്ക് വീതവും തെറ്റായ ഉത്തരങ്ങൾക്ക് പൂജ്യവും നൽകാൻ തയ്യാറാകുക ആദ്യത്തെ ഉത്തരം യഥാർത്ഥ നിശബ്ദതയാണ് ഒരാൾ സംസാരിക്കുന്നത് നിർത്തുമ്പോൾ മേലധികാരിയും തൊഴിലാളിയും തമ്മിലുള്ള അടുപ്പമുള്ള ബന്ധങ്ങൾ തമ്മിലുള്ള ആധിപത്യത്തിന്റെ ശക്തമായ മാർഗമായി നിശബ്ദത ഉപയോഗിക്കാം അതിനാൽ മറ്റേ വ്യക്തിയുടെ ആധിപത്യത്തിനുള്ള ശക്തമായ മാർഗമായി നിശബ്ദത ഉപയോഗിക്കാം അവൻ അല്ലെങ്കിൽ അവൾ സമർപ്പിക്കുന്ന ബന്ധത്തെക്കുറിച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ മറ്റേയാൾ നൽകുന്ന ഏത് ആവശ്യത്തിനും വിധേയമായ പ്രതിഫലമായി മാറുന്നു അതിനാൽ ഇത് രസകരമാണ് നിങ്ങൾ എല്ലായ്പ്പോഴും അലറേണ്ടതില്ല നിയന്ത്രിക്കാൻ മറ്റേയാൾ എല്ലായ്പ്പോഴും സംസാരിക്കട്ടെ എന്നാൽ മറ്റേ വ്യക്തിയെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് നിശബ്ദത വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും പ്രത്യേകിച്ച് മനുഷ്യ ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ ബന്ധ സമ്പർക്കങ്ങളുടെ കാര്യത്തിൽ രണ്ടാമത്തേത് വാക്കേതര ആശയവിനിമയത്തിന് വൈരുദ്ധ്യമുണ്ടാക്കാൻ കഴിയും എന്നതാണ് വാക്കാലുള്ള അർത്ഥം അതിനാൽ നിങ്ങളുടെ ശരീരഭാഷയ്ക്ക് നിങ്ങൾ ആരോടെങ്കിലും പറയുന്നതിനെ എതിർക്കാൻ കഴിയും എന്നാണ് ഇതിനർത്ഥം അതിനാൽ എനിക്ക് താൽപ്പര്യമില്ലെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ നിങ്ങൾക്ക് ശരിക്കും താൽപ്പര്യമുണ്ടെന്ന് നിങ്ങളുടെ കണ്ണുകൾ കാണിക്കുന്നു അതിനാൽ അതാണ് അർത്ഥമാക്കുന്നത് മൂന്നാമത്തെ വാക്കേതര ആശയവിനിമയം വാക്കാലുള്ള ആശയവിനിമയത്തിന് പകരമായി ഉപയോഗിക്കാം ഉത്തരം ശരിയാണ് അത് ചിത്രത്തിൽ തന്നെ നൽകിയിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ദയവായി നിശബ്ദത എന്ന് പറയാം അല്ലെങ്കിൽ സംസാരിക്കരുത് എന്ന് സൂചിപ്പിച്ച് നിങ്ങളുടെ വിരൽ വായിൽ വയ്ക്കാം ഈ അസംബന്ധം നിർത്തുക എന്ന് നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ശക്തിയോടെ നിങ്ങളുടെ കൈ കാണിച്ച് ആ വ്യക്തിയോട് ഇത് നിർത്തുക എനിക്ക് ഇത് ഇഷ്ടമല്ല എന്ന് പറയാം നാലാമത്തേതും ശരിയാണ് ചില വാക്കേതര അടയാളങ്ങൾ സാർവത്രികവും സാധാരണയായി സ്വീകാര്യവുമാണ് വാസ്തവത്തിൽ മിക്ക വാക്കേതര അടയാളങ്ങളും സാർവത്രികവും സാധാരണയായി സ്വീകാര്യവുമാണ് ഉദാഹരണത്തിന് ഉദാഹരണത്തിന് സന്തോഷം സാർവത്രികമായി സ്വീകാര്യമായ എന്നാൽ സന്തോഷത്തെ സൂചിപ്പിക്കുന്ന ഈ മുഖവും ദുഃഖത്തെ സൂചിപ്പിക്കുന്ന മുഖവും ആയ ചില അടിസ്ഥാന പദപ്രയോഗങ്ങൾ നോക്കാൻ പോകുന്നു അതിനാൽ അതിൽ രണ്ട് അഭിപ്രായങ്ങളില്ല അതിനാൽ ഇത് സാർവത്രികമായി സ്വീകാര്യമാണ് സമാനമായ വാക്കാലുള്ള അർത്ഥം സൂചിപ്പിക്കുന്ന അടുത്ത ആംഗ്യങ്ങൾ വി ചിഹ്നം കാണിക്കുന്ന അവരുടെ സാംസ്കാരിക പശ്ചാത്തലമനുസരിച്ച് വാക്കേതരമായി വ്യത്യാസപ്പെടാം ഉദാഹരണത്തിന് ഇത് വാക്കാലുള്ള ഒരു കാര്യത്തെ അർത്ഥമാക്കാം എന്നാൽ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിങ്ങൾ വഴി കാണിക്കുമ്പോൾ സാംസ്കാരികമായി ഇത് വ്യത്യസ്ത കാര്യങ്ങളെ അർത്ഥമാക്കാം അതിനാൽ ഒരാൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് വീണ്ടും കൂടുതൽ ഉദാഹരണങ്ങളുമായി നോക്കാം ആറാമത്തേത് മുഖം എന്നത് വാക്കേതര ആശയവിനിമയത്തിന്റെ ഏറ്റവും ശക്തമായ ചാനലാണ് ഉത്തരം ശരിയാണ് കാരണം നിങ്ങൾ മുഖം മാത്രം നിരീക്ഷിക്കുകയാണെങ്കിൽ മുഖം കാണുന്നതുപോലെ കണ്ണുകൾ പുഞ്ചിരി അല്ലെങ്കിൽ പുഞ്ചിരിയുടെ അഭാവം എന്നിവയെല്ലാം മുഖത്ത് നിന്ന് തന്നെ കാണാൻ കഴിയും അതിനാൽ മുഖഭാവങ്ങൾ നോക്കി നിങ്ങൾക്ക് വ്യക്തിയുടെ താൽപ്പര്യം എളുപ്പത്തിൽ അളക്കാൻ കഴിയും ഏഴാമത്തെ ഉത്തരം ശരിയാണ് നമ്മൾ ഇഷ്ടപ്പെടാത്ത വ്യക്തികളിൽ നിന്ന് അകന്നുപോകുകയും നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു അതിനാൽ അവർ പരസ്പരം ഇഷ്ടപ്പെടുന്ന ഈ രണ്ട് ചെറിയ ആൺകുട്ടികൾ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രം ഞാൻ വെച്ചിട്ടുണ്ട് അവർ പരസ്പരം കൈകോർക്കുന്നു പക്ഷേ ആരെയെങ്കിലും ഇഷ്ടപ്പെടാത്തപ്പോൾ നിങ്ങൾ അകലം പാലിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എട്ടാമത്തെ നെഗറ്റീവ് നോൺ വെർബൽ സിഗ്നലുകൾ പോസിറ്റീവ് സിഗ്നലുകളേക്കാൾ കൂടുതൽ ശ്രദ്ധേയമാണ് തീർച്ചയായും അതെ നിങ്ങൾ ദുഃഖിതനായിരിക്കുമ്പോൾ മറച്ചുവെക്കുന്നതിൽ നിങ്ങൾ വളരെ വിദഗ്ധരല്ലെങ്കിൽ അടുത്ത ആളുകൾ അത് ഉടൻ ശ്രദ്ധിക്കും അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം അൽപ്പം പോലും മറച്ചുവെക്കാൻ കഴിയും എന്നാൽ നിങ്ങൾ അസന്തുഷ്ടരാണെന്ന ഈ സങ്കട വിഷാദം നിങ്ങൾക്ക് ദേഷ്യമുണ്ട് നിങ്ങൾ നിരാശരാണ് അതിനാൽ ആളുകളോട് നിങ്ങൾ പ്രതികരിക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഭാവം കാണും ഒൻപതാമത്തേത് നിങ്ങളുടെ ശരീരഭാഷയെക്കുറിച്ചുള്ള യഥാർത്ഥ അവബോധം അത് നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും ഇത് നമ്മുടെ കോഴ്സിനെയും പാഠത്തെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് കാരണം നിങ്ങളുടെ ശരീരഭാഷ ആശയവിനിമയത്തിൻറെ കാര്യത്തിൽ നിങ്ങളുടെ ശരീരത്തിന് എന്തുചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും നിങ്ങൾക്ക് എങ്ങനെ വാക്കേതര ആശയവിനിമയം വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും ഇത് ശരിയായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നതിനും സ്വമേധയാ ഉള്ള ശരീരഭാഷ നിങ്ങളിൽ ഉണ്ടാക്കുന്ന ചില പരിമിതികൾ ഒഴിവാക്കുന്നതിനും നിങ്ങളെ സഹായിക്കും അതിനാൽ അത് നിയന്ത്രിക്കാൻ യഥാർത്ഥ അവബോധം നിങ്ങളെ സഹായിക്കും അവസാനത്തെ പത്തിലൊന്ന് ദീർഘകാലത്തേക്ക് വ്യാജ ശരീരഭാഷ ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാണ് അതിനാൽ നിങ്ങൾ സന്തുഷ്ടരാണെങ്കിൽ നിങ്ങൾക്ക് മറയ്ക്കാനും കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ദുഃഖിതനാണെന്ന് കാണിക്കാനും കഴിയും തിരിച്ചും നിങ്ങൾക്ക് സങ്കടമുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്ക് അത് മറയ്ക്കാനും കഴിയും എന്നാൽ ചില സമയങ്ങളിൽ ഇത് ആളുകൾ കാണും നിങ്ങൾക്ക് വ്യാജമാക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അത് ദീർഘകാലത്തേക്ക് മറയ്ക്കാൻ കഴിയില്ല അതിനാൽ ദീർഘകാലത്തേക്ക് വ്യാജ ശരീരഭാഷ ഉണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് നിങ്ങളുടെ സ്കോർ വിശകലനത്തിലേക്ക് പോകാം സ്കോർ വിശകലനം ഇത്തവണ നിങ്ങൾ നന്നായി ചെയ്തുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പത്ത് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ അവയെല്ലാം ശരിയായിരുന്നു പത്തിലൊന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നോൺ വെർബൽ ആശയവിനിമയത്തിൽ നിങ്ങൾ മികച്ചവരാണ് നിങ്ങൾ ഇതിനകം തന്നെ എട്ട് മുതൽ ഒമ്പത് വരെ വിദഗ്ധരാണ് അത് വളരെ മികച്ച വിഭാഗത്തിലാണ് ആറ് മുതൽ ഏഴ് വരെയുള്ള വിഭാഗങ്ങൾ നല്ലതാണ് എന്നാൽ ആറ് മുതൽ അഞ്ച് വരെ ശരാശരി അല്ലെങ്കിൽ ശരാശരിയേക്കാൾ അല്പം കൂടുതലാണ് നിങ്ങൾ ആറ് മൂന്ന് മുതൽ നാല് വരെ സ്പർശിക്കുകയാണെങ്കിൽ അത് ശരാശരിയേക്കാൾ കുറവും പൂജ്യം മുതൽ രണ്ട് വരെ മോശവുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ ആറിൽ താഴെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും വളരെയധികം മെച്ചപ്പെടേണ്ടതുണ്ട് നിങ്ങൾ വളരെ നല്ല വിഭാഗത്തിലാണെങ്കിൽ നിങ്ങൾ മികച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ കഴിയും നിങ്ങൾക്ക് വികസിപ്പിക്കാൻ കൂടുതൽ കഴിവുകൾ ആവശ്യമുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എവിടെയാണ് കുറവുണ്ടായതെന്ന് പരിശോധിക്കുന്നത് തുടരുക എന്നാൽ നിങ്ങൾ ഇതിനകം തന്നെ വാക്കേതര കഴിവുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു നല്ല നിരീക്ഷകനാണ് ഇതിനകം തന്നെ ഈ വൈദഗ്ദ്ധ്യം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് സോഫ്റ്റ് സ്കിൽസും നിങ്ങളുടെ വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിൽ ഇത് നിങ്ങളെ സഹായിക്കും ഇപ്പോൾ അവസാനിപ്പിക്കുന്നതിനുമുമ്പ് ആശയവിനിമയത്തിലെ തടസ്സങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പ് രണ്ട് പ്രഭാഷണങ്ങളെക്കുറിച്ച് സംസാരിച്ച ഒരു കാര്യം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ശരീരഭാഷയുടെ ഒരു വശം നമ്മൾ പിന്നീട് സംസാരിക്കും എന്നാൽ ഇന്ന് നമ്മൾ ചെയ്തതിന് ഇത് ഒരുതരം പ്രസക്തമാണ് അത് ആക്സസറികളാണ് ഇപ്പോൾ ഈ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കുക ഞാൻ നിങ്ങൾക്ക് ഒരു മാർക്കും നൽകുന്നില്ല എന്നാൽ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ നിങ്ങൾ വാച്ച് ധരിക്കുന്ന രീതി നിങ്ങൾ ബ്രേസ്ലെറ്റ് നിങ്ങൾ ബ്രേസ്ലെറ്റ് കമ്മലുകൾ മൂക്കിൻറെ മോതിരം എന്നിവ ധരിക്കുന്ന വാച്ച് നിങ്ങൾ ഇടുന്ന മേക്കപ്പ് അല്ലെങ്കിൽ നിങ്ങൾ മുടി ചായം പൂശാത്ത മേക്കപ്പ് നിങ്ങൾ ചായം പൂശുന്നതിനോ ചായം പൂശുന്നതിനോ ഉപയോഗിക്കുന്ന നിറമാണ് മീശയില്ലാത്ത മീശയുള്ള തരത്തിലുള്ളതും വ്യത്യസ്ത തരത്തിലുള്ള മീശയുള്ള ഹെയർ സ്റ്റൈൽ തരം ബെൽറ്റ് ഹാൻഡ്ബാഗ് പാദരക്ഷകളുള്ളതുമാണ് അതിനാൽ ഷൂസ് അല്ലെങ്കിൽ സ്ലിപ്പർ ഹൈ ഹീൽസ് ധരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ശരീരഭാഷയ്ക്ക് സംഭാവന ചെയ്യുന്ന ആക്സസറികളാണ് അവ പ്രതീകാത്മകമായി എന്തെങ്കിലും അറിയിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അവ ശാരീരികമോ മാനസികമോ ആയ തടസ്സമായി പ്രവർത്തിക്കുമോ ആക്സസറികൾ ആശയവിനിമയത്തിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുമോ അതോ തടസ്സങ്ങളായി പ്രവർത്തിക്കുമോ അപ്പോൾ ആക്സസറികൾ ആശയവിനിമയത്തിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുകയോ തടസ്സങ്ങളായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നതിന് നിങ്ങളുടെ ഉത്തരം എന്താണ് നിങ്ങൾ ഏത് ആക്സസറികളാണ് ഉപയോഗിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആരാണ് നിങ്ങൾ ഏത് സന്ദർഭം ഉപയോഗിക്കുന്നു ആരാണ് ഉപയോഗിക്കുന്നത് ആക്സസറികളിലൂടെ ഏത് തരത്തിലുള്ള അർത്ഥം അറിയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ നൽകും ഉദാഹരണത്തിന് ഹൈ ഹീൽ എടുക്കുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമാകും ഇപ്പോൾ ഹൈ ഹീൽസ് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഉയരം കുറവാണെങ്കിൽ കണ്ണുമായി സമ്പർക്കം പുലർത്താൻ സഹായിക്കുന്നു അതിനാൽ അവർക്ക് മുകളിലേക്ക് നോക്കണമെങ്കിൽ ഉയരമുള്ള പുരുഷന്മാരെ നേരെ നോക്കുക അതിനാൽ അവർ തുല്യരാണെന്നും അവർ പുരുഷ മേലധികാരികളെ നോക്കേണ്ടതില്ലെന്നും ഇത് ഒരുതരം തോന്നൽ നൽകുന്നു അതിനാൽ അത് അവർക്ക് കുറച്ച് സുരക്ഷ നൽകുന്നു എന്നാൽ ആരെങ്കിലും ഡയമണ്ട് പതിച്ച ഹൈ ഹീൽസ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയെ നോക്കുന്നതിനുപകരം മറ്റുള്ളവരുടെ കണ്ണുകൾക്ക് തിളക്കം നൽകുന്ന ഒരു വ്യതിചലനമോ ഏതെങ്കിലും തരത്തിലുള്ള ഹൈ ഹീലോ ആയിരിക്കും ധരിക്കുന്ന ഉയർന്ന കുതികാൽ നോക്കുന്നത് തുടരുകയാണെങ്കിൽ മുഖഭാവങ്ങളോട് പ്രതികരിക്കുന്ന കണ്ണുകളിലേക്ക് അതിനാൽ അത് ശരിക്കും ഒരു ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നതാണ് ഇത് ശാരീരികവും മാനസികവുമായ ഒരു തരത്തിലുള്ള തടസ്സമായിരിക്കും അതുപോലെ തന്നെ അനുചിതമായ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും അനുചിതമായ ആക്സസറിയുടെ കാര്യത്തിൽ ആക്സസറി ബാരിയറിന് ഉണ്ടായിരിക്കാം ഉദാഹരണത്തിന് നിങ്ങൾ വിലകൂടിയതോ വിലകുറഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ടോ അതിനാൽ അത് ഉദാഹരണത്തിന് ഒരു അഭിമുഖത്തിലെ സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ മാന്യമായ ഒരു വൃത്തിയുള്ളതുമായി പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ നിങ്ങൾ വളരെ ചെലവേറിയ ഈ ജാക്കറ്റുമായി പോകുകയും തുടർന്ന് ബ്രാൻഡ് ചില ലെതർ ജാക്കറ്റായി അറിയപ്പെടുകയും അത് തണുപ്പില്ലാത്തപ്പോൾ പോലും ബ്രാൻഡിനെ പ്രദർശിപ്പിക്കുന്നതിനായി ബ്രാൻഡ് ചെയ്യുകയും ചിലപ്പോൾ അമിതമായി വസ്ത്രം ധരിക്കുകയും ചിലപ്പോൾ ആവശ്യമില്ലാത്ത ഇടം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാൽ ലളിതമായ ഉദാഹരണം നിങ്ങൾ ഒരു ബിക്കിനി ധരിച്ച് നീന്തൽക്കുളത്തിലേക്ക് പോകണം പക്ഷേ നിങ്ങൾക്ക് അഭിമുഖത്തിനോ ബിക്കിനി ധരിച്ച് ഒരു അവതരണത്തിനോ പോകാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ തീർച്ചയായും അവരുടെ ശ്രദ്ധ അക്കാദമികമല്ലാത്ത കാര്യങ്ങളിലേക്ക് വ്യതിചലിപ്പിക്കുകയാണ് അത് അനാവശ്യമായ ബോഡി പെർഫ്യൂം ആണ് നിങ്ങൾക്ക് അത് വീണ്ടും ഉപയോഗിക്കാം പക്ഷേ നിങ്ങൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ അത് വളരെ കഠിനമായ മണം സൃഷ്ടിക്കുന്നു തുടർന്ന് ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നു ചില ആളുകൾക്ക് ഇത് അലർജിയുണ്ടാക്കുന്നു അതിനാൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഓ എനിക്ക് ഈ സുഗന്ധം ഇഷ്ടമല്ലെന്നും അവർ നിങ്ങളെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും മാനസികമായി ചിന്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ബോഡി പെർഫ്യൂം ഉപയോഗിക്കുന്നതിലെ ലിംഗപരമായ അനുചിതതയുടെ കാര്യത്തിൽ മറ്റൊരു കാര്യം സംഭവിക്കാം അതിനാൽ ആ വ്യക്തിക്ക് പ്രവേശിക്കാൻ കഴിയുന്നതിനുമുമ്പ് അവർ റോസ് പെർഫ്യൂം അകത്തേക്ക് വരുന്ന ഒരു അഭിമുഖ സാഹചര്യമുണ്ടായിരുന്നു തുടർന്ന് എല്ലാവരും പേപ്പറുകൾ നോക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ സുഗന്ധം ആകർഷിക്കപ്പെട്ടു അപ്പോൾ അവർ കരുതി വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി വരാൻ പോകുകയാണെന്ന് അവർ കരുതി അവൾ ഈ സുഗന്ധം ധരിക്കുന്നു പിന്നെ ആ ചെറുപ്പക്കാരൻ വന്നു അത്ര സുന്ദരനല്ല പക്ഷെ അയാൾ ഈ റോസ് പെർഫ്യൂം ഇട്ടത് എന്തുകൊണ്ടാണെന്ന് അയാൾക്ക് മാത്രമേ അറിയൂ പക്ഷേ മാനസികമായി ആളുകൾ ഈ ആളെ കണ്ടപ്പോൾ നിരാശപ്പെട്ട ഒരു കാര്യത്തിനായി തയ്യാറെടുക്കുകയും അവരുടെ മനസ്സിൽ ഉണ്ടായ പ്രതീക്ഷയും നിരാശയും ഒരു തടസ്സമായി പ്രവർത്തിക്കുകയും ചെയ്തു അതിനാൽ തുടക്കം മുതൽ അവർ അദ്ദേഹത്തെ ചില മുൻവിധികളോടെ നോക്കാൻ ശ്രമിച്ചു അദ്ദേഹം വളരെ നല്ല സ്ഥാനാർത്ഥിയാണെങ്കിലും അവർ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തില്ല അതിനാൽ നിങ്ങൾക്ക് അത് എങ്ങനെ ഉചിതമായി ഉപയോഗിക്കണമെന്ന് അറിയില്ലെങ്കിൽ പെർഫ്യൂം നിങ്ങൾക്കെതിരെ പോകാം അതേ കാര്യം വാച്ചിനൊപ്പം പോകാം വാച്ച് പ്രവർത്തനക്ഷമമായിരിക്കണം എന്നാൽ നിങ്ങൾ ഒരു ഡയമണ്ട് പതിച്ച ഒന്ന് ധരിച്ചാൽ എല്ലാവരുടെയും കണ്ണുകൾ വാച്ചിലേക്ക് മടങ്ങുന്നു അതിനാൽ നിങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് അവരുമായി ആശയവിനിമയം നടത്താനുള്ള അവസരം നിങ്ങൾക്ക് വീണ്ടും നഷ്ടപ്പെടും അതിനാൽ നിങ്ങൾ അവരുടെ ശ്രദ്ധ തിരിക്കുകയും നിങ്ങളുടെ ചെവിയിൽ ഇടുന്ന വളയങ്ങൾ നിങ്ങളുടെ വിരൽ വളകൾ നെക്ലേസ് എന്നിവ ഉപയോഗിച്ച് ഒരു തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു അത് ലളിതമായിരിക്കണം ഔപചാരിക സന്ദർഭങ്ങളിൽ അലങ്കാരങ്ങൾ കഴിയുന്നത്ര കുറയ്ക്കുകയും ഉചിതമായവ ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും മികച്ച കാര്യം അത് ഒരിക്കലും ഒരുതരം വ്യതിചലനമായി ഉപയോഗിക്കാതിരിക്കുകയും ശാരീരികമായും മാനസികമായും ഒരു തടസ്സമായി മാറുകയും ചെയ്യുക മേക്കപ്പ് അല്ലെങ്കിൽ മുടി ചായം പൂശുന്നതിന്റെ കാര്യത്തിൽ കൂടുതൽ രസകരമായ ചില ഉദാഹരണങ്ങൾ നോക്കൂ ഞാൻ മധ്യത്തിൽ വെച്ച ഒന്ന് നോക്കൂ അതിനാൽ ഒരാൾക്ക് മുടി ചായം പൂശുന്നത് ഒരു പച്ചക്കുതിരയോ അല്ലെങ്കിൽ വ്യത്യസ്ത നിറങ്ങളുള്ള ഏതെങ്കിലും മൃഗമോ പോലെ കാണപ്പെടുകയും തുടർന്ന് മീശയുടെ തരത്തിലാവുകയും ചെയ്യും അതിനാൽ നിങ്ങൾക്ക് ഇത് വളരെ വലുതായി വളർത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ എന്നാൽ ഔപചാരിക സന്ദർഭങ്ങളിൽ നിങ്ങൾ വിലയിരുത്തപ്പെടുന്നതുപോലെ ഒരു അഭിമുഖ സാഹചര്യത്തിൽ നിങ്ങൾ ഇതും ഹെയർസ്റ്റൈലുമായി പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഇത് ഭംഗിയുള്ളതായി തോന്നുന്നുവെന്നും അത് മനോഹരമായി തോന്നുന്നുവെന്നും നിങ്ങൾക്കും നിങ്ങളുടെ സമപ്രായക്കാർക്കും സ്റ്റൈലിഷ് ആയി തോന്നുന്നുവെന്നും അഭിമുഖത്തിൽ ഇരിക്കുകയും നിങ്ങളെ വിലയിരുത്തുകയും ചെയ്യുന്ന ഔപചാരിക ആളുകളല്ലെന്നും അവർ നിങ്ങൾക്ക് ഒരു ജോലി നൽകാൻ തയ്യാറാണെന്നും നിങ്ങൾക്ക് പറയാം ഇപ്പോൾ ഇത് ഒരു പ്രതിരോധമായി പ്രവർത്തിക്കും അതിനാൽ ഇത് മനസ്സിൽ വയ്ക്കുക അതിനാൽ ആക്സസറികൾ ഉചിതമായി ഉപയോഗിക്കുക അനുചിതമായ ഉപയോഗം നിങ്ങളെ പ്രശ്നത്തിലേക്ക് നയിക്കുമെന്നും അത് ഒരു തടസ്സമായി പ്രവർത്തിക്കുമെന്നും അത് ചെയ്യുന്നത് മൂല്യവത്തല്ലെന്നും നിങ്ങൾക്ക് ഒരു ഉപസംഹാര ചിന്ത നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാൽ ഈ ആക്സസറികൾ ഇന്ന് നിങ്ങളുടെ മൊബൈൽ പോലെ ഞങ്ങളുടെ ഭാഗമായിത്തീർന്നിരിക്കുന്നു മറ്റെല്ലാ ആക്സസറികളും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നു അവ നിങ്ങളുടെ വ്യക്തിത്വത്തിലേക്ക് ചേർക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വവും നൽകുന്ന അതിന്റെ ആക്സസറി പോലെ തോന്നുന്നു ഒരേ എഴുത്തുകാരനായ ക്രിസ്റ്റ്യൻ ലോബോട്ടിൻ്റെ രണ്ട് ഉദ്ധരണികൾ നോക്കൂ അദ്ദേഹം പ്രത്യേകിച്ച് ഷൂകളെക്കുറിച്ച് സംസാരിക്കുന്നു ഈ രണ്ട് ചിന്തകളോടെ ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കാൻ പോകുന്നു ഒരു ഷൂ ഒരു ഡിസൈൻ മാത്രമല്ല ഷൂ ഒരു ഡിസൈൻ മാത്രമല്ല എന്നാൽ നിങ്ങൾ നടക്കുന്ന രീതി നിങ്ങളുടെ ശരീരഭാഷയുടെ ഭാഗമാണ് പക്ഷേ അത് നിങ്ങളുടെ ശരീരഭാഷയുടെ ഭാഗമാണ് നിങ്ങൾ നടക്കാൻ പോകുന്ന രീതി നിങ്ങളുടെ ഷൂസുകളാൽ നിർണ്ണയിക്കപ്പെടുന്നു അതിനാൽ നിങ്ങൾ നീങ്ങാൻ പോകുന്ന രീതി നിങ്ങളുടെ ഷൂസുകളാൽ നിർണ്ണയിക്കപ്പെടുന്നു ഷൂസ് പലപ്പോഴും നിങ്ങളെ നിവർന്നുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നു നിങ്ങൾ നിവർന്നുനിൽക്കുന്ന രീതിയിൽ നടക്കരുത് അത് വ്യക്തിത്വം നൽകുന്നു അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ കുറയ്ക്കുന്നു അതിനാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കണം ഒരു സ്ത്രീ കുതികാൽ ഉപയോഗിക്കുന്നത് എങ്ങനെ ഉചിതമാണെന്ന് നോക്കുക ഒരു സ്ത്രീ അവളുടെ ഉയരം ഉയർത്താൻ അല്പം ഉയർന്ന കുതികാൽ ധരിക്കുമ്പോൾ അവൾ അത് ശരിയായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് മറ്റൊരു ഭാവമുണ്ട് അതിനാൽ അവൾ ശരിക്കും എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു വ്യത്യസ്ത മനോഭാവത്താൽ രൂപം തന്നെ മെച്ചപ്പെടുത്തുന്നു അവളുടെ ശരീരത്തെക്കുറിച്ച് അവൾക്ക് ബോധമുണ്ട് അവൾ ശരിക്കും എഴുന്നേറ്റ് നിൽക്കുകയും അവളുടെ ശരീരത്തെക്കുറിച്ച് ബോധവുമുണ്ട് ഇപ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വമേധയാ ഉള്ള ചലനത്തെ കൊല്ലുന്ന ഒരു ബോധമില്ലാത്ത അവളുടെ ശരീരത്തെക്കുറിച്ച് അനുകൂലമായ രീതിയിൽ ബോധം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തെ പ്രോത്സാഹിപ്പിക്കാനും ആളുകളെ സ്വാധീനിക്കാനും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വിജയം ആസ്വദിക്കാനുമുള്ള മൃദുവായ കഴിവുകൾ വികസിപ്പിക്കാനും സഹായിക്കും എന്നതാണ് ഉപസംഹാരം ഈ വീഡിയോ കണ്ടതിന് നന്ദി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു